അവസാന ക്ലാസ്സിൽ ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ സെന്റർ ക്രാക്കിന്റെ പ്രശ്നം നമ്മൾ പരിശോധിച്ചു നമ്മൾ ഒരു ചോദ്യം ഉന്നയിച്ചു ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സമ്മർദ്ദ ഊർജ്ജം എങ്ങനെ കണ്ടെത്താം വാസ്തവത്തിൽ മൂന്ന് സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾ പട്ടികപ്പെടുത്തി ഡൈമൻഷണൽ അനാലിസിസ് റിലാക്സേഷൻ അനലോഗി ക്രാക്ക് ഫെയ്സ് ഡിസ്പ്ലേസ്മെൻറിനെ അടിസ്ഥാനമാക്കിയുള്ള യഥാർത്ഥ കണക്കുകൂട്ടൽ എന്നിവയിലൂടെ ഇത് ചെയ്യാൻ കഴിയും ഇത് ചെയ്യുന്നതിന് സമ്മർദ്ദത്തെയും സ്ഥാനചലന മേഖലകളെയും കുറിച്ച് അറിയേണ്ടതുണ്ട് നമ്മുടെ ചർച്ചയ്ക്ക് നമ്മൾ ചെയ്തത് ഒരു കേന്ദ്ര വിള്ളലിന് ലഭ്യമായ പരിഹാരം നമ്മൾ സ്വീകരിച്ചു രണ്ട് നുറുങ്ങുകൾ ഉപയോഗിച്ച് ഇത് ഊന്നിപ്പറയുന്നു നോക്കൂ ഇത് നിസ്സാരമായി തോന്നാം വാസ്തവത്തിൽ ഈ സൂക്ഷ്മമായ പോയിന്റ് തിരിച്ചറിയാത്തതിന് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അത് ഊന്നിപ്പറയാൻ ഞാൻ അത് വീണ്ടും പറയുന്നു ഒരു കേന്ദ്ര വിള്ളലിന് നമ്മൾ പരിഹാരം കണ്ടു നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത് രണ്ട് ടിപ്പുകൾ ഉള്ള വിള്ളലാണ് ഇത് പൈ സിഗ്മ സ്ക്വയർ a സ്ക്വയർ ഹരിക്കണം E എന്നത് സ്ട്രെയിൻ എനർജി Ua ക്ക് തുല്യമാണെന്ന് നൽകിയിരിക്കുന്നു മറ്റൊരു വശം കൂടി ഇത് യൂണിറ്റ് കട്ടിയുള്ള അനന്തമായ പാനലിനായി ലഭിച്ചതാണെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി ഫ്രാക്ചർ മെക്കാനിക്സിലെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് കനം പരിമിതമായ കനം എന്നിവയ്ക്കായി നിങ്ങൾക്ക് സമവാക്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ പുസ്തകങ്ങൾ നോക്കുമ്പോൾ എക്സ്പ്രഷനുകൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം അത് യൂണിറ്റ് കട്ടിയുള്ളതാണോ അതോ പരിമിതമായ കനം B ആണോ എന്ന് അതിനാൽ എന്റെ എല്ലാ ചർച്ചകളിലും ഞാൻ ബോധപൂർവ്വം ചെയ്തത് ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നതാണ് യൂണിറ്റ് കനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വികസിപ്പിക്കും നിങ്ങൾക്ക് പരിമിതമായ കനം ഉള്ളപ്പോൾ നമ്മൾ നോക്കും വാസ്തവത്തിൽ ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സമ്മർദ്ദ ഊർജ്ജത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലമതിപ്പിനെ സഹായിക്കുന്നതിന് നമ്മൾ റിലാക്സേഷൻ അനലോഗി പരിശോധിച്ചു നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇവ ഗണിതശാസ്ത്രപരമായി കർശനമായിരുന്നില്ല റിലാക്സേഷൻ അനലോഗി ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് കനം B ആയി പരിഗണിച്ചു അതിനാൽ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കും ഈ സമവാക്യങ്ങളുടെ വികാസത്തിലേക്ക് കനം കൊണ്ടുവരുമ്പോൾ ഈ സമവാക്യങ്ങൾ എങ്ങനെ മാറുന്നു എനർജി റിലീസ് റേറ്റ് റെസിസ്റ്റൻസ് എന്നിവയുടെ നിർവചനം എനർജി റിലീസ് റേറ്റിന്റെ നിർവചനം എന്താണ് എന്ന് ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നു ഇത് നമ്മൾ ചർച്ച ചെയ്ത പ്രശ്നത്തിന്റെ തുടർച്ചയാണ് ഇതിനുള്ള ഫലം പൈ സിഗ്മ സ്ക്വയർ A യെ E കൊണ്ട് ഹരിച്ചതാണ് ഇത് ഒരു ടെൻഷൻ സ്ട്രിപ്പിൽ പ്രത്യേക കേന്ദ്രീകൃത വിള്ളൽ പ്രശ്നത്തിന് വേണ്ടിയാണ് സംഗ്രഹിച്ച പോയിൻറുകൾ എന്തുതന്നെയായാലും ഏത് പൊതുവായ പ്രശ്നത്തിനും വേണ്ടിയുള്ളതാണ് നിങ്ങൾ ഇവിടെ എന്താണ് കണ്ടെത്തുന്നത് ശരീരത്തിന്റെ യൂണിറ്റ് കനം ഓരോ ക്രാക്ക് ടിപ്പിനും ക്രാക്ക് ഫ്രണ്ടിന്റെ യൂണിറ്റ് എക്സ്റ്റൻഷന് പുറത്തുവിടുന്ന ഊർജ്ജമാണ് എനർജി റിലീസ് റേറ്റ് നമ്മൾ ഒരു സെന്റർ ക്രാക്ക് എടുത്തതിനാൽ ഇവിടെ വിള്ളലിന്റെ നീളം 2a ആയി ഇടുന്നു ഊർജ്ജ പ്രകാശന നിരക്കിന്റെ പൊതുവായ പ്രകടനമായി ഇതിനെ കണക്കാക്കരുത് ഇത് ഒരു സെന്റർ ക്രാക്കിന്റെ ഒരു പ്രത്യേക പ്രശ്നത്തിനുള്ളതാണ് വാസ്തവത്തിൽ കനം B യും മറച്ചിരിക്കുന്നു കുറച്ച് സമയത്തിനുശേഷം നമ്മൾ കാണും ഒരു പൊതു പ്രയോഗം അതിൽ നമുക്ക് ഇത് 1 ഹരിക്കണം B ഡോ Ua ഹരിക്കണം ഡോ a ആണ് കൂടാതെ ഒരു പരിമിതമായ കട്ടിയുള്ള പ്ലേറ്റിനായി ഇത് പൈ സിഗ്മ സ്ക്വയർ ba ഹരിക്കണം E എന്ന് പരിഷ്കരിക്കും അതിനാൽ B റദ്ദാക്കപ്പെടും അങ്ങനെയാണ് നിങ്ങൾ ഇത് നേടുക എനർജി റിലീസ് റേറ്റിനുള്ള യൂണിറ്റുകൾ ചതുരശ്ര മീറ്ററിന് ജൂൾസ് അല്ലെങ്കിൽ മീറ്ററിന് ന്യൂട്ടൺ ആണ് ഇതിനെ യൂണിറ്റ് എക്സ്റ്റൻഷന് ക്രാക്ക് ഡ്രൈവിംഗ് ഫോഴ്സ് എന്നും വിളിക്കാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് പദാവലി നിരക്ക് ഉള്ളപ്പോഴെല്ലാം സമയവുമായി എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ സമയത്തെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല അതിനാൽ ഇതിനെ ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന് വിളിക്കുന്നു ഒരർത്ഥത്തിൽ ഒരു തെറ്റായ നാമം അതിനാൽ ഊർജ്ജ പ്രകാശന നിരക്ക് നമ്മൾ കണ്ടു കൂടാതെ നമ്മൾ പ്രതിരോധത്തെക്കുറിച്ചും നോക്കും അവർ ഇതിനെ ചെറുത്തുനിൽപ്പ് എന്നാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അവർ ഇതിനെ പ്രതിരോധ നിരക്ക് എന്ന് വിളിക്കുന്നില്ല സാഹിത്യത്തിൽ ഇതിനെ പ്രതിരോധം എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ സെന്റർ ക്രാക്കിനായി ഉപരിതല ഊർജ്ജത്തിന്റെ ഗാമ s അടിസ്ഥാനത്തിൽ ഈ പ്രതിരോധത്തെ നമ്മൾ പരിശോധിച്ചു നോക്കൂ ഇത് വളരെ പ്രധാനമാണ് ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ സെന്റർ ക്രാക്കിന്റെ പ്രശ്നം നമ്മൾ പരിശോധിച്ചു കൂടാതെ നമ്മൾ അത് ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയും ചെയ്തു ഇത് നമ്മളെ സഹായിച്ചു ഉപരിതല ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധം രൂപപ്പെടുത്തുന്നതിലൂടെ ലാറ്റിസ് കണക്കുകൂട്ടലിനെ അടിസ്ഥാനമാക്കിയുള്ള സൈദ്ധാന്തിക ശക്തി എന്താണെന്ന് താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു ഇതിൽ ഉപരിതല ഊർജ്ജവും ഉൾപ്പെടുന്നു ശാസ്ത്രജ്ഞർ ഇതിനെ സൈസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു ഗ്രിഫിത്ത് ഇത് ഒരു ക്രാക്ക് സൈസ് ഇഫക്റ്റായി തിരിച്ചറിഞ്ഞു ഈ വീക്ഷണകോണിൽ നിന്ന് ഇംഗ്ലിസ് പരിഹാരം സൃഷ്ടിച്ച വിരോധാഭാസം ഇല്ലാതാക്കാനും നമുക്ക് കഴിഞ്ഞു വിള്ളലിന്റെ നീളം ഒരു പങ്കു വഹിക്കുന്നു അത് ഗ്രിഫിത്തിന്റെ പ്രധാന സംഭാവനയായിരുന്നു നിങ്ങൾ നോക്കേണ്ട മറ്റൊരു വശം നമ്മൾ ഒരു എനർജി ബാലൻസ് ചെയ്തു രണ്ട് പുതിയ ഉപരിതലങ്ങളുടെ രൂപവത്കരണത്തിന് എനിക്ക് ഊർജ്ജം ആവശ്യമാണ് ഈ ഊർജ്ജം സിസ്റ്റത്തിന്റെ സമ്മർദ്ദ ഊർജ്ജത്തിൽ നിന്നാണ് വരുന്നത് കൂടാതെ പ്രതിരോധം മെറ്റീരിയലിൽ അന്തർലീനമാണ് പൊട്ടുന്ന വസ്തുക്കൾക്കായി നമ്മൾ സെന്റർ ക്രാക്കിനായി നോക്കി R എന്നത് 2 ഗാമാ s ന് തുല്യമാണ് ഇത് സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ഒരു ഫംഗ്ഷനാണോ എന്നത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാരണം നമ്മുടെ ശ്രദ്ധ പൊട്ടുന്ന സോളിഡുകളിൽ മാത്രം ഒതുങ്ങുന്നത് പര്യാപ്തമല്ല കാരണം ഉയർന്ന ശക്തിയുള്ള ഡക്റ്റൈൽ ലോഹക്കൂട്ടുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഇർവിന് എങ്ങനെ കഴിഞ്ഞു അതിനാൽ നമുക്ക് കാത്തിരുന്ന് കാണണം കൂടാതെ അദ്ദേഹം ആർ എന്ന നിർവചനവുമായി കളിക്കുന്നു അതിനാൽ ഭാവിയിലെ എല്ലാ ചർച്ചകളിലും നമ്മൾ ഇത് R ആയി സൂക്ഷിക്കും അത് സ്ഥിരമാണെങ്കിൽ അത് ഒരു വക്രമാണെങ്കിലും എല്ലാം നമ്മൾ അത് നോക്കുന്നു മറ്റൊരു വശം രണ്ട് പുതിയ ഉപരിതലങ്ങളുടെ രൂപീകരണത്തിനായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഊർജ്ജം ആവശ്യമാണ് ഏതെങ്കിലും ഗണിതശാസ്ത്ര വികാസത്തിൽ നിങ്ങൾ ഒരു വ്യവസ്ഥ പറയുമ്പോൾ അത് ഒരു അനിവാര്യമായ അവസ്ഥയാണോ അല്ലെങ്കിൽ മതിയായ അവസ്ഥയാണോ ഈ അവസ്ഥ അനിവാര്യവും പര്യാപ്തവുമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ അത് തൽക്കാലം മാറ്റിവയ്ക്കും ഒടിവ് അസ്ഥിരതയെ നമ്മൾ കൂടുതൽ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ അവസ്ഥയെന്താണ് മതിയായ അവസ്ഥയെന്താണെന്ന് പരിശോധിക്കുകയും ചെയ്യും എല്ലാം കൂടി നമ്മൾ ഊർജ്ജ ബാലൻസ് മാത്രമാണ് നോക്കിയത് അങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തത് ഊർജ്ജ ബാലൻസ് വഴി പൊട്ടൻഷ്യൽ ഊർജ്ജത്തിന്റെ പ്രവർത്തനമായി G ഇപ്പോൾ നമ്മൾ പോയി സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ഊർജ്ജ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജ പ്രകാശന നിരക്ക് പട്ടികപ്പെടുത്തുകയും ചെയ്യും ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്രാക്ക് ടിപ്പ് ഉള്ള ഒരൊറ്റ വിള്ളലിനെ ഞാൻ പരിഗണിക്കാൻ പോകുന്നു ഇതിന് രണ്ട് ക്രാക്ക് ടിപ്പുകൾ ഉണ്ടാകില്ല നിരന്തരമായ ലോഡും നിരന്തരമായ സ്ഥാനചലനവും ചിത്രീകരിക്കുന്നതിന് നമ്മൾ എടുത്ത ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നമുക്ക് ഇരട്ട കാന്റിലിവർ ബീം മാതൃക ഉണ്ടായിരുന്നു അതിന് ഒരൊറ്റ വിള്ളൽ ഉണ്ടായിരുന്നു ഒരു ക്രാക്ക് ടിപ്പ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഒന്നുകിൽ അത് ആ വിഭാഗത്തിൽ പെട്ടതാകാം അല്ലെങ്കിൽ എഡ്ജ് ക്രാക്ക് ഉള്ള പ്ലേറ്റ് ആകാം നമ്മൾ നോക്കുന്നത് ഇതാണ് വിള്ളലിന് വിസ്തൃതിയിൽ വർദ്ധനവ് ഉണ്ട് അത് ഡെൽറ്റ A ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ഊർജ്ജ പ്രകാശന നിരക്ക് എന്നിവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു പൊതുവായ സാഹചര്യത്തിൽ ഡെൽറ്റ W നൽകിയ ബാഹ്യജോലിയുടെ മാറ്റവും സമ്മർദ്ദ ഊർജ്ജത്തിന്റെ മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രെയിൻ എനർജി മാറ്റം മാത്രമേ ഉണ്ടാകൂ അതിനാൽ നമ്മൾ ഒരു പൊതുവായ പദപ്രയോഗം എഴുതാൻ ശ്രമിക്കുമ്പോൾ ഇവ രണ്ടും ആശയക്കുഴപ്പത്തിലാക്കരുത് അതിൽ ബാഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഘടകങ്ങളും സ്ട്രെയിൻ എനർജിയുടെ മാറ്റവും ഉണ്ടാകും ഊർജ്ജ റിലീസ് നിരക്ക് എന്താണെന്ന് നമ്മൾ ഇതിനകം പരിശോധിച്ചതിനാൽ ഈ രീതിയിൽ എനർജി ബാലൻസ് എഴുതാൻ എനിക്ക് കഴിഞ്ഞു എനർജി റിലീസ് റേറ്റ് എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ നമ്മൾ ഇത് ഇടത് വശത്ത് എഴുതി ഇത് വലതുവശത്ത് എഴുതുന്നു നമ്മുടെ വികസനത്തിൽ ഊർജ്ജം പുറത്തുവിടുന്ന നിരക്ക് എന്താണെന്ന് നമ്മൾ ഇതിനകം പരിശോധിച്ചു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുവെന്ന് സൂചിപ്പിക്കാൻ നമുക്ക് G1 ഗുണിക്കണം ഡെൽറ്റ A എന്ന് എഴുതാം അത് ബാഹ്യ ജോലികളിലെ മാറ്റത്തിന് തുല്യമാണ് ഈ ഊർജ്ജ ബാലൻസ് എഴുതുന്നതിൽ നമ്മൾ എങ്ങനെ നീതീകരിക്കപ്പെടുന്നു പൊട്ടുന്ന സോളിഡുകളാണ് നമ്മൾ പരിഗണിക്കുന്നത് ഊർജ്ജത്തിന്റെ വിസർജ്ജനം ഇല്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു ഇവിടെ വീണ്ടും വിള്ളൽ പ്രചരിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ നോക്കുന്നു അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിനുശേഷം നമ്മൾ തൽക്ഷണം നോക്കുന്നില്ല ആ നിമിഷത്തിനായി മാത്രമാണ് നമ്മൾ ഈ എനർജി ബാലൻസ് എഴുതുന്നത് നമുക്ക് ലഭിച്ചത് നാം അത് ഒരു സൌകര്യപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കും നോക്കൂ ഇലാസ്തികതയുടെ സിദ്ധാന്തത്തിൽ ആളുകൾക്ക് ഊർജ്ജം എന്താണെന്ന് നിർവചിക്കാനുണ്ട് അത്തരമൊരു പദപ്രയോഗത്തിൽ ഈ പദപ്രയോഗം പുനർനിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കും അതാണ് ഈ സ്ലൈഡിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ നമ്മൾ ചെയ്യുന്നത് സമവാക്യത്തെ ഡെൽറ്റ A കൊണ്ട് ഹരിക്കുന്നു ഈ ഘട്ടം ശ്രദ്ധിക്കുക പരിധി എടുക്കുമ്പോൾ ഡെൽറ്റ A "0" ആയി മാറുന്നു ഇത് ഒരു പ്രധാന പോയിന്റാണ് നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്തരുത് വർദ്ധിച്ചുവരുന്ന മാറ്റം എന്തുതന്നെയായാലും വർദ്ധിക്കുന്ന മാറ്റം വളരെ ചെറുതാണ് അതാണ് നമ്മൾ നോക്കുന്നത് അതിനാൽ എനിക്ക് ലഭിക്കുന്നത് GI സമം "മൈനസ് നെഗറ്റീവ് d ഹരിക്കണം dA 'U കുറക്കണം ബാഹ്യ W' സാഹിത്യത്തിൽ ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തം U കുറക്കണം ബാഹ്യ W യുടെ സംയോജനത്തെ ക്യാപിറ്റൽ പൈ എന്ന് വിളിക്കുന്നു ഇത് പൊട്ടൻഷ്യൽ ഊർജ്ജം എന്നറിയപ്പെടുന്നു തുടർച്ചയായ മെക്കാനിക്സിൽ നിന്ന് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് മാറാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തുടർച്ചയായ മെക്കാനിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന പാരാമീറ്ററുകൾ ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അവ എങ്ങനെയിരിക്കുമെന്ന് ആളുകൾ അറിയാൻ ആഗ്രഹിച്ചു അതിനാൽ നമുക്ക് പരിചിതമായ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഫ്രാൿചർ പാരാമീറ്റർ പ്രകടിപ്പിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു അതിനാൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത് GI എന്നത് "മൈനസ് നെഗറ്റീവ് d ക്യാപിറ്റൽ പൈ ഹരിക്കണം dA" അതിനാൽ ഇതാണ് പൊതുപദപ്രയോഗം നിങ്ങൾ ഓർമ്മിക്കേണ്ടത് G ഒരു വിള്ളലിന് അതിന്റെ വളർച്ചയ്ക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് നൽകിയിരിക്കുന്ന നിർദ്ദിഷ്ട സംഭവങ്ങൾക്ക് മുഴുവൻ പദപ്രയോഗവും പോസിറ്റീവ് ആയിത്തീരും ഡെൽറ്റ A എന്താണ് ക്രാക്ക് എക്സ്റ്റൻഷന്റെ ഡെൽറ്റ A "B ഗുണിക്കണം ഡെൽറ്റ A" ക്ക് തുല്യമാണ് ഞങ്ങൾ ഒരു ക്രാക്ക് ടിപ്പ് മാത്രമാണ് നോക്കുന്നത് അതിനാൽ വിള്ളൽ ഡെൽറ്റ A നീളും അതിനാൽ ഇത് ഉപയോഗിച്ച് സമവാക്യം "മൈനസ് 1 ഹരിക്കണം B" d ക്യാപിറ്റൽ പൈ ഹരിക്കണം da എന്ന് എഴുതാൻ സാധിക്കും അതിനാൽ സ്ട്രെയിൻ എനർജി റിലീസ് ചെയ്ത നിരക്കിന്റെ ഏറ്റവും സാധാരണമായ പദപ്രയോഗമാണിത് അതിനാൽ ഒരു പ്രത്യേക സാഹചര്യത്തിന് നിങ്ങൾ d ക്യാപിറ്റൽ പൈ ഹരിക്കണം da എന്ന് കണക്കാക്കേണ്ടതുണ്ട് സ്ഥിരമായ ലോഡിനും സ്ഥിരമായ സ്ഥാനചലനത്തിനുമുള്ള ഫലം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും സ്ഥിരമായ ലോഡിനായി ഡെൽറ്റ പൈ മൈനസ് 1 പകുതി Pdv ആയി നൽകിയിരിക്കുന്നു അത് മൈനസ് ഡെൽറ്റ യുവിന് തുല്യമാണ് അതിനാൽ മൈനസ് ഡെൽറ്റ യു നിങ്ങൾ ഇവിടെ ഇടുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയിത്തീരും ഒടുവിൽ G പോസിറ്റീവ് ആണ് സ്ഥിരമായ സ്ഥാനചലനത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇത് 1 ഹരിക്കണം 2v ഗുണിക്കണം dP ആണ് എനിക്ക് ഇത് ഡെൽറ്റ U ആയി ലഭിക്കുന്നു എന്നാൽ ഈ ഡെൽറ്റ U നെഗറ്റീവ് ആണ് കാരണം നമ്മൾ ഇതിനകം കണ്ടതാണ് മൈനസ് മൈനസ് പോസിറ്റീവ് ആയിത്തീരും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് G എന്നത് "1 ഹരിക്കണം B" 'dU ഹരിക്കണം da' എന്ന് എഴുതാം ഒന്നുകിൽ നിങ്ങൾക്ക് സാധ്യതയുള്ള ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിൻ എനർജിയുടെ കാര്യത്തിലും നോക്കാം രണ്ടാമത്തെ എക്സ്പ്രഷൻ കൊണ്ട് നിങ്ങൾക്കറിയാം ആളുകൾ ഇതിനെ സ്ട്രെയിൻ എനർജി റിലീസ് റേറ്റ് എന്നും വിളിക്കുന്നു പക്ഷേ അത് ഒരു പൊതു നിർവചനമല്ല ഗണിതശാസ്ത്രപരമായി എനിക്ക് "1 ഹരിക്കണം B" 'dU ഹരിക്കണം da' ഉണ്ടെങ്കിലും പ്രശ്നത്തിന്റെ ഭൌതികശാസ്ത്രത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്ഥിരമായ ഒരു ലോഡിന്റെ കാര്യത്തിൽ രണ്ട് പുതിയ വിള്ളൽ പ്രതലങ്ങളുടെ രൂപീകരണത്തിന്റെ ഊർജ്ജ ആവശ്യകത യഥാർത്ഥത്തിൽ ബാഹ്യ ജോലികളിൽ നിന്നാണ് വന്നതെന്ന് നമ്മൾ കാണും അതിനാൽ ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന നിർവചനം നമ്മൾ നിലനിർത്തും ഇതിനെ നമ്മൾ ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന് വിളിക്കില്ല ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികാസത്തിലും അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നിരന്തരമായ ലോഡിലേക്ക് മടങ്ങുന്നു നമ്മുടെ മനസ്സിലാക്കൽ ശക്തിപ്പെടുത്തും അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് നീളമുള്ള വിള്ളൽ ഉള്ള ഒരു മാതൃകയ്ക്കായി ലോഡ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുന്നു മറ്റൊരു മാതൃകയിൽ ada നീളമുള്ള വിള്ളൽ വ്യക്തമായും കാഠിന്യം കുറഞ്ഞു അതിനാൽ ഗ്രാഫ് a നീളമുള്ള വിള്ളൽ ഉള്ള മാതൃകയ്ക്കായി വരച്ച ഗ്രാഫിന് താഴെയാണ് ഈ ഊർജ്ജം നോക്കൂ സ്ട്രെയിൻ എനർജിയിൽ നമുക്ക് ഒരു മാറ്റമുണ്ട് അന്തിമ സമ്മർദ്ദ ഊർജ്ജം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു പ്രാരംഭ സ്ട്രെയിൻ എനർജി എന്താണെന്ന് നമ്മൾ നോക്കുന്നു സ്ട്രെയിൻ എനർജിയിലെ വ്യത്യാസം കാണാം തുടർന്ന് ബാഹ്യ ജോലികളും ചെയ്തതായി നിങ്ങൾ കാണുന്നു ഇവിടെയുള്ള സൂക്ഷ്മമായ പോയിന്റ് P1 dv ആണ് dv യുടെ സ്ഥാനചലനത്തിനായി ലോഡ് സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ ഇത് അതിന്റെ പകുതിയല്ല അതിനാൽ ഇത് ഒരു ദീർഘചതുരമാണ് നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്ന സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ ഊർജ്ജത്തിലെ മാറ്റം ഈ ത്രികോണമാണ് ഇത് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം ഗ്രാഫിക്കൽ സമീപനത്തിന്റെ വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് നിങ്ങൾക്ക് നല്ല ഗ്രാഹ്യം നൽകുന്നു നിരന്തരമായ സ്ഥാനചലനം നമ്മൾ കാണുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും രണ്ട് സിസ്റ്റങ്ങളുണ്ട് തുടക്കത്തിൽ വിള്ളൽ a ആയിരുന്നു ഇത് a ഡെൽറ്റ a പ്രചരിപ്പിച്ചു നിങ്ങൾക്ക് ഈ ഗ്രാഫുകൾ ഉണ്ട് മാത്രമല്ല ആപ്ലിക്കേഷൻ പോയിന്റ് നീങ്ങരുത് അതിനെ ഫിക്സഡ് ഗ്രിപ് എന്ന് വിളിക്കുന്നു ഇത് കണക്കിലെടുക്കുമ്പോൾ ബാഹ്യ ജോലികൾ '0' ആണ് കൂടാതെ അവസാന സ്ട്രെയിൻ എനർജിയും പ്രാരംഭ സ്ട്രെയിൻ എനർജിയും കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെയിൻ എനർജിയിൽ മാറ്റം ലഭിക്കും ഒപ്പം പ്രക്രിയയിൽ സ്ട്രെയിൻ എനർജി കുറഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന ഊർജ്ജം ഡെൽറ്റ Uക്ക് തുല്യമാണ് എന്നാൽ ഈ മാറ്റം നെഗറ്റീവ് ആണ് ഊർജ്ജ ലഭ്യത എന്താണ് വീണ്ടും ഈ ത്രികോണം പാലിക്കൽ കോംപ്ലയൻസ് കണക്കിലെടുത്ത് G യുടെ പദപ്രയോഗം നോക്കൂ നമ്മൾ ഇപ്പോൾ ഊർജ്ജ പ്രകാശന നിരക്കിന് മറ്റൊരു സമീപനം സ്വീകരിക്കും തന്നിരിക്കുന്ന പ്രായോഗിക പ്രശ്നത്തിന് ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ഊർജ്ജം കണ്ടെത്തുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് സെന്റർ ക്രാക്കിനായി ലഭ്യമായ പരിഹാരം നമ്മൾ ഏറ്റെടുത്തു നമ്മുടെ വികസനത്തിൽ നമ്മൾ ഇതുവരെ കർശനമായ ഗണിതശാസ്ത്രം നടത്തിയിട്ടില്ല ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് അത് ചെയ്യാൻ കഴിയൂ അതിനാൽ ഇർവിൻ നിർദ്ദേശിച്ചത് ഇതാണ് നിങ്ങൾ സിസ്റ്റത്തിന്റെ പാലിക്കൽ നോക്കുകയാണെങ്കിൽ ഒരു റിയലിസ്റ്റിക് സാഹചര്യത്തിൽ കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു പരീക്ഷണം നടത്താനും ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ പാലിക്കൽ കണ്ടെത്താനും കഴിയും അതിനാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഊർജ്ജ പ്രകാശന നിരക്കിനായി നമ്മൾ അനുരൂപങ്ങൾ സ്വീകരിക്കും വിള്ളൽ നീളം കൂടുന്നതിനനുസരിച്ച് ഘടകത്തിന്റെ കാഠിന്യം കുറയുന്നത് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു ഇതാണ് അറിയപ്പെടുന്ന വസ്തുത നിങ്ങളുടെ ദൃഢമായ മെക്കാനിക്സ് ധാരണയിൽ നിന്ന് എന്താണ് പാലിക്കൽ എന്നും നമുക്കറിയാം ഇത് കാഠിന്യത്തിന്റെ വിപരീതമാണ് ഒപ്പം അനുസരണവും C ചിഹ്നമാണ് നൽകുന്നത് കാഠിന്യം k അതിനാൽ നിങ്ങൾ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇർവിൻ നിർദ്ദേശിച്ചത് ഒടിവ് മെക്കാനിക്സ് പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പാലിക്കുന്നത് എളുപ്പമാണ് അതിനാൽ നമ്മൾ പദപ്രയോഗങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തും ലോഡിംഗിന്റെ ഒരു പൊതു കേസിനായി നിങ്ങൾക്ക് ലോഡ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ k v ക്ക് തുല്യമായി P പ്രയോഗിക്കാൻ കഴിയും ഇത് ആയി വായിക്കരുത് ഇത് ഇറ്റാലിക് ഫോണ്ടിൽ ന്യൂ ആയി ദൃശ്യമാകുന്നു പക്ഷേ ഇത് k ഗുണിക്കണം v ആയി വായിക്കുക പാലിക്കൽ കണക്കിലെടുത്ത് ഈ പദപ്രയോഗം വീണ്ടും ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു പാലിക്കൽ കാഠിന്യത്തിന്റെ വിപരീതമാണെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ നിങ്ങൾ k ക്ക് പകരമാകുമ്പോൾ എനിക്ക് CP യ്ക്ക് തുല്യമായ v എന്ന പദപ്രയോഗം ലഭിക്കും ഇവയെല്ലാം വളരെ ലളിതമായ പദപ്രയോഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം വാസ്തവത്തിൽ നിരന്തരമായ ലോഡിനും സ്ഥിരമായ സ്ഥാനചലനത്തിനുമായി നമ്മൾ കണക്കുകൂട്ടലുകൾ നടത്തും സിപിയ്ക്ക് തുല്യമായ ഈ പദപ്രയോഗം ഉപയോഗിച്ച് നമ്മൾ കളിക്കേണ്ടിവരും നമ്മൾ ചെയ്യേണ്ടത് d ക്യാപിറ്റൽ പൈ ഹരിക്കണം da എന്നതിനുപകരം dC ഹരിക്കണം da എന്ന് മാറ്റിസ്ഥാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് ഫോക്കസ് ഈ വ്യുൽപ്പന്നം നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ പാതിവഴിയിൽ കൊണ്ടുപോകുകയും കുറച്ച് സമയം നൽകുകയും ഈ സമവാക്യങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയും പദപ്രയോഗം നേടാൻ ശ്രമിക്കുകയും ചെയ്യും ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് അങ്ങേയറ്റത്തെ കേസുകൾക്ക് നമ്മൾ ഇത് പരിഹരിക്കും ഒന്ന് സ്ഥിരമായ ലോഡ് മറ്റൊന്ന് നിരന്തരമായ സ്ഥാനചലനം എന്തുകൊണ്ടാണ് നമ്മൾ ഇവ നോക്കുന്നത് നിങ്ങളുടെ വിശകലന പദപ്രയോഗങ്ങൾ എഴുതുന്നതിനോടൊപ്പം പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമുള്ള കാഴ്ചപ്പാടിൽ നിന്ന് അവ സൌകര്യപ്രദമാണ് വർദ്ധിച്ചുവരുന്ന മാറ്റങ്ങൾ 0 ത്തിലേക്ക് അടുക്കുന്തോറും സ്ഥിരമായ ലോഡിലെ ഊർജ്ജ ലഭ്യതയും സ്ഥിരമായ സ്ഥാനചലനവും സമാനമാണെന്ന് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ സ്ഥിരമായ ലോഡിന്റെയും സ്ഥിരമായ സ്ഥാനചലനത്തിന്റെയും രണ്ട് കേസുകൾക്കും ഒടുവിൽ നമുക്ക് ഊർജ്ജ പ്രകാശന നിരക്ക് '1 ഹരിക്കണം B' 'dU ഹരിക്കണം da' ആണ് അതിനാൽ ഗണിതശാസ്ത്രപരമായി നമ്മൾ ഇതിനകം കാണിച്ചുതന്നിട്ടുണ്ട് വീക്ഷണകോണിൽ നിന്ന് പൊട്ടൻഷ്യൽ ഊർജ്ജം അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ഊർജ്ജ ലഭ്യത തുല്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന ആശയം പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ബാധകമാക്കുന്നതിന് ഇർവിൻ നിർദ്ദേശിച്ചു ഇത് പാലിക്കൽ നോക്കാം സ്ഥിരമായ ലോഡിനും സ്ഥിരമായ സ്ഥാനചലനത്തിനും നമുക്ക് ഇത് ലഭിക്കും ഇപ്പോൾ നിരന്തരമായ ലോഡിംഗിനായി നമുക്ക് നോക്കാം അതിനാൽ ഇവിടെയാണ് നമുക്ക് മുമ്പ് ലഭിച്ചത് നമ്മൾ മൈനസ് 1 ഗുണിക്കണം Pdv യുടെ പകുതി വരെ എത്തിയിരിക്കുന്നു ഇത് നിങ്ങൾക്കറിയാം ഇപ്പോൾ അനുയോജ്യമായ അളവനുസരിച്ച് ഇവിടെ അളവുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരണം നിരന്തരമായ ലോഡ് മറ്റൊരു കേസിൽ നിരന്തരമായ സ്ഥാനചലനം അനുയോജ്യമായ ഗണിതശാസ്ത്ര ലളിതവൽക്കരണം വളരെ ലളിതമാണ് നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത് അവസാനമായി നിരന്തരമായ ലോഡിൽ എനിക്ക് ലഭിക്കുന്ന ഊർജ്ജ പ്രകാശന നിരക്കിന്റെ എക്സ്പ്രഷൻ എന്തായാലും നിരന്തരമായ സ്ഥാനചലനത്തിന് തുല്യമായിരിക്കണം അതാണ് പ്രതീക്ഷ നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ സമയം എടുക്കുക ഞാൻ നിങ്ങളെ സഹായിക്കും ഇത് വളരെ ലളിതമാണ് നിങ്ങൾ CPയ്ക്ക് തുല്യമായ v നോക്കുന്നു ഇവിടെ പ്രധാന കാര്യം നമ്മൾ വർദ്ധിച്ചുവരുന്ന മാറ്റം നോക്കാൻ പോകുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾ വേർതിരിക്കുമ്പോൾ എനിക്ക് ഇത് CdP PdC ആയിരിക്കും നിങ്ങൾ നോക്കേണ്ടതുണ്ട് നമ്മൾ നിരന്തരമായ ലോഡിംഗിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നിരന്തരമായ ലോഡിംഗിന് കീഴിൽ dP '0' ത്തിലേക്ക് പോകുന്നു അതിനാൽ ഞാൻ ഊർജ്ജ പ്രകാശന നിരക്ക് എഴുതുമ്പോൾ പാലിക്കൽ കണക്കിലെടുത്ത് ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കും വളരെ ലളിതമാണ് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ വേർതിരിക്കുമ്പോൾ നമ്മൾ ഇത് CdP PdC എന്ന് എഴുതണം നിങ്ങൾ ഈ ഗണിതശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇത് നോക്കിയേക്കാം അതിനാൽ ഞാൻ ഇവിടെയെത്തുന്നത് എന്താണ് അതിനാൽ ഡെൽറ്റ ക്യാപിറ്റൽ പൈ 'മൈനസ് PdC'യുടെ പകുതിയായി മാറുന്നു ഇത് 'മൈനസ് P സ്ക്വയർ dC'യുടെ പകുതിയായി കുറയുന്നു അതിനാൽ പൊതുവായ പദപ്രയോഗത്തിൽ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഡെൽറ്റ A 0 ലേക്ക് പോകുമ്പോൾ ഇത് ജി ആയി എനിക്ക് ലഭിക്കുന്നു മൈനസ് ഡെൽറ്റ പൈയെ ഡെൽറ്റ A കൊണ്ട് ഹരിച്ചാൽ എന്ന് നമുക്ക് കിട്ടും ഡെൽറ്റ A "BdA" എന്നതിലുപരി മറ്റൊന്നുമല്ല നമുക്ക് ഡെൽറ്റ പൈ എന്താണെന്നത് ഇതിനകം തന്നെ ഉരുത്തിരിഞ്ഞു കൂടാതെ ഊർജ്ജ പ്രകാശന നിരക്കിനുള്ള പദപ്രയോഗം 'P സ്ക്വയർ ഹരിക്കണം 2B' 'dC ഹരിക്കണം dA' ആണ് വാസ്തവത്തിൽ നിങ്ങളുടെ അസൈൻമെന്റ് ഷീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പാലിക്കൽ അളക്കുന്നതിനുള്ള ഒരു പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അതിനാൽ ഗ്രാഫിക്കൽ സമീപനത്തിൽ നിന്ന് നിങ്ങൾക്ക് dC ഹരിക്കണം dA ഡാറ്റ ശേഖരിക്കാനും പകരമാവാനും ഊർജ്ജ പ്രകാശന നിരക്ക് കണക്കാക്കാനും കഴിയും അതിനാൽ ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന ആശയം പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ബാധകമാക്കുന്നതിന് ഇത് മീഡിയ വഴി നൽകുന്നു അതിനാൽ നിങ്ങൾ അസൈൻമെന്റ് പ്രശ്നം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായി മനസ്സിലാകും നിരന്തരമായ സ്ഥാനചലനത്തിനായി ഞാൻ നീങ്ങുമ്പോൾ 'P സ്ക്വയർ 2B' 'dC ഹരിക്കണം dA' ആയി ഊർജ്ജ പ്രകാശന നിരക്കിന്റെ അന്തിമ പദപ്രയോഗം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയേണ്ടതില്ല കാരണം വർദ്ധിച്ചുവരുന്ന മാറ്റങ്ങൾ വളരെ ചെറുതാണ് ഇതാണ് പ്രധാന കാര്യം ഇവിടെ വീണ്ടും ഞാൻ പാതിവഴിയിൽ പോകും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം പുനർനിർമ്മിക്കണം എനിക്ക് ഡെൽറ്റ പൈ 1 ഹരിക്കണം 2 ഗുണിക്കണം dP ഉണ്ട് വീണ്ടും തിരികെ പോയി പാലിക്കൽ സംബന്ധിച്ച അടിസ്ഥാന ബന്ധം നോക്കുക അതിനെ വേർതിരിക്കുക ശ്രദ്ധാപൂർവ്വം പകരം വയ്ക്കുക നിങ്ങൾ ഇത് പ്രവർത്തിക്കേണ്ടതുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കുക അന്തിമഫലം നിങ്ങൾക്കറിയാമെന്നതിനാൽ ഇത് വളരെ ലളിതമാണ് ഫലം അറിയാം അതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പിന്നിലേക്ക് പ്രവർത്തിക്കാനും ശൂന്യമായവ പൂരിപ്പിക്കാനും കഴിയും എന്തായാലും ഞങ്ങൾ ഗണിതശാസ്ത്രത്തിലേക്ക് നോക്കും സ്ഥിരമായ സ്ഥാനചലനത്തിനായി dV 0 ത്തിന് തുല്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം മുമ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ നിരന്തരമായ ലോഡ് നോക്കുമ്പോൾ ഈ പദം 0 ത്തിലേക്ക് പോകുന്നു അതിനാൽ dV എന്ന് നമ്മൾ ലളിതമായി എഴുതി ഇപ്പോൾ dV '0' ആണ് അതിനാൽ ഇവ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ലഭിക്കും അത് മാത്രം ഞാൻ ഇവിടെ പകരം വയ്ക്കേണ്ടിവരും എനർജി റിലീസ് റേറ്റിന്റെ അടിസ്ഥാന നിർവചനം ഞാൻ പ്രയോഗിക്കുകയാണെങ്കിൽ സമം 'മൈനസ് 1 ഹരിക്കണം 2b' 'dP ഹരിക്കണം dA' യുടെ v തവണ എന്ന പദപ്രയോഗം എനിക്ക് ലഭിക്കും അതിനാൽ എനിക്ക് ഈ dP മാറ്റിസ്ഥാപിക്കേണ്ടിവരും ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കും അതിനാൽ എനിക്കുള്ളത് ഞാൻ dV '0' ന് തുല്യമാകുമ്പോൾ എനിക്ക് CdP 'മൈനസ് PdC' ക്ക് തുല്യമാണ് അതിനാൽ dP 'dC യുടെ മൈനസ് പി' തവണയായി മാറുന്നു അതിനാൽ ഈ പദപ്രയോഗത്തിൽ ഞാൻ പകരം വയ്ക്കുമ്പോൾ അന്തിമ പദപ്രയോഗം G1 സമം 'P സ്ക്വയർ ഹരിക്കണം 2B' 'dC ഹരിക്കണം dA' ആയി ലഭിക്കും അതിനാൽ ഒരു ഗണിതശാസ്ത്ര വീക്ഷണകോണിൽ നിരന്തരമായ ലോഡിംഗിന്റെയും സ്ഥിരമായ സ്ഥാനചലനത്തിന്റെയും കാര്യത്തിൽ ഊർജ്ജ ലഭ്യത തുല്യമാണ് നമ്മെത്തന്നെ ബോധ്യപ്പെടുത്തുന്നതിനായി നമ്മൾ വീണ്ടും തിരിച്ചുപോയി ഗ്രാഫ് നോക്കും നിങ്ങൾക്ക് പൊതുവായ ലോഡിംഗ് ഉണ്ട് നമ്മൾ ഇത് ഒരു ചുവന്ന ത്രികോണമായി ഇടുന്നു ഒപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം dP അല്ലെങ്കിൽ ഡെൽറ്റ P 0 ആകുമ്പോഴോ ഡെൽറ്റ V 0 ലേക്ക് പോകുമ്പോഴോ ഈ ത്രികോണം 0 ലേക്ക് പോകുന്നു അതിനാൽ രണ്ടും ഗ്രാഫിക്കൽ വീക്ഷണകോണിലും ഗണിതശാസ്ത്ര വീക്ഷണകോണിലും നിരന്തരമായ ലോഡിംഗിനും സ്ഥിരമായ സ്ഥാനചലനത്തിനും ഊർജ്ജ ലഭ്യത തുല്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടും തമ്മിൽ മാറുന്നത് കാരണം ചില ഗണിതശാസ്ത്ര സംഭവവികാസങ്ങൾ ഈ കേസുകളിലൊന്നിൽ ചെയ്യാൻ എളുപ്പമാണ് മാത്രമല്ല ഒരു പരീക്ഷണാത്മക അളവെടുപ്പിനായി നിങ്ങൾക്ക് ഇത് നീട്ടാനും കഴിയും അതിനാൽ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ പ്രയോഗിക്കുന്നതിന് ഇത് ഒരു മീഡിയ വഴി നൽകുന്നു അതിനാൽ ആളുകൾ ഇത് നോക്കാനുള്ള കാരണം ഇതാണ് ഉദാഹരണങ്ങൾക്കായി ജി വിലയിരുത്തൽ ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും രണ്ട് ഉദാഹരണങ്ങൾക്കായി ഊർജ്ജ പ്രകാശന നിരക്ക് വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കും ആദ്യം നമ്മൾ ഒരു ഇരട്ട കാന്റിലിവർ ബീം പ്രശ്നം ഏറ്റെടുക്കും ഇത് ഫ്രാക്ചർ മെക്കാനിക്സ് സാഹിത്യത്തിൽ d c b മാതൃക എന്നും അറിയപ്പെടുന്നു നിങ്ങൾ d c b എന്ന് പറയുന്ന നിമിഷം നിങ്ങൾക്ക് ഈ സ്വഭാവത്തിന്റെ ഒരു മാതൃക ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ട് മുകളിലും താഴെയുമുള്ള ഭാഗങ്ങൾ കാന്റിലിവറുകൾ പോലെ പ്രവർത്തിക്കുന്നു മെറ്റീരിയലുകളുടെ കരുത്തുറ്റ ലളിതമായ ഒരു കോഴ്സിൽ നിന്ന് സ്വതന്ത്ര അറ്റത്തുള്ള വ്യതിചലനം എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് ഡെൽറ്റ സമം 'Pa ക്യൂബ് ഹരിക്കണം 3EI' യായി നൽകുന്നു അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് E ഉള്ളത് യംഗ് മോഡുലസ് ആണ് a ബീം നീളം I മോമെന്റ്റ് ഓഫ് ഇനേർഷ്യ സ്ക്രീനിലേക്ക് വരുന്ന ബീമിന്റെ കനം B കനം സ്ക്രീനിലുണ്ട് ഇതാണ് കനം ഉയരം h ആയി എടുക്കുന്നു മൊത്തം സ്ഥാനചലനം v ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ എനിക്ക് v എന്ന് എഴുതേണ്ടിവന്നാൽ അത് 2 മടങ്ങ് ഡെൽറ്റയല്ലാതെ മറ്റൊന്നുമല്ല കാന്റിലിവർ ബീമിലെ സ്വതന്ത്ര ഭാഗത്തെ വ്യതിചലനം ഇതാണ് എനിക്ക് ഇവിടെ ഒരു ബീം ഉണ്ട് മറ്റൊരു ബീം ഇവിടെയുണ്ട് അതിനാൽ അതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കി v എന്താണ് എന്ന് എഴുതുക അതിനാൽ v ക്ക് തുല്യമായി നമുക്ക് ലഭിക്കുന്ന സ്ഥാനചലനം2P a ക്യൂബ് ഹരിക്കണം 3EI നിങ്ങൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ബന്ധം എഴുതുന്ന നിമിഷം എന്താണ് പാലിക്കൽ എന്ന് എഴുതുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് അതിനാൽ നിങ്ങൾ ഇത് പാലിച്ചുകഴിഞ്ഞാൽ ഊർജ്ജ പ്രകാശന നിരക്ക് പ്രയോഗിക്കാൻ നേരിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ലളിതമായ പ്രശ്നം ഏറ്റെടുത്തത് ഇത് ലളിതം മാത്രമല്ല പ്രശ്നം തികച്ചും ഉപയോഗപ്രദമാണ് അത് എങ്ങനെയെന്ന് നമ്മൾ കാണും നിലവിൽ നമ്മൾ പോയി ഈ പ്രശ്നത്തിന്റെ ഊർജ്ജ പ്രകാശന നിരക്ക് എത്രയാണെന്ന് നോക്കാം നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ് മോമെന്റ്റ് ഓഫ് ഇനേർഷ്യ Bh ക്യൂബ് ഹരിക്കണം 12 ആണ് ഒപ്പം v എന്ന പദപ്രയോഗത്തിൽ നിന്ന് C എന്നത് 2 a ക്യൂബ് ഹരിക്കണം 3EI എന്ന് എഴുതുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് ഇപ്പോൾ ഞാൻ പകരം വയ്ക്കുക Bh ക്യൂബ് ഹരിക്കണം 12 നു വിധേയമായി I ആണ് നിങ്ങൾക്ക് ഒടുവിൽ 8 a ക്യൂബ് ഹരിക്കണം EBh ക്യൂബ് കിട്ടും നിങ്ങൾക്ക് അനുസരണത്തെക്കുറിച്ച് അറിയുന്ന നിമിഷം നിങ്ങൾക്ക് നേരെ തന്നെ ഊർജ്ജ പ്രകാശന നിരക്ക് ലഭിക്കും ഇവിടെ വീണ്ടും ലളിതമായ കണക്കുകൂട്ടൽ നടത്തുക നോക്കൂ നിങ്ങൾ ലളിതമായ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നു കൂടാതെ നിങ്ങൾ പുതുക്കേണ്ടിവരുമ്പോൾ അത് ഗ്രീക്ക് ലാറ്റിൻ ആയി ദൃശ്യമാകില്ല അതിനാൽ ഈ ലളിതമായ കണക്കുകൂട്ടലുകൾ അവിടവിടെ ചെയ്യുക പ്രസക്തമായ പദപ്രയോഗത്തിൽ പകരം വയ്ക്കാൻ ഒരു മിനിറ്റ് എടുക്കുക എന്റെ ഫലം ഉപയോഗിച്ച് അത് പരിശോധിക്കുക അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ചില വശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഈ ഫലം വളരെ ഉപയോഗപ്രദമാകും അന്തിമ പദപ്രയോഗം നമുക്ക് ഇപ്പോൾ നോക്കാം G യെ 'P സ്ക്വയർ ഹരിക്കണം 2B' 'dC ഹരിക്കണം da' എന്ന് നൽകിയതായി നമുക്കറിയാം അതിനാൽ ഞാൻ ഈ പദപ്രയോഗങ്ങളെ മാറ്റിസ്ഥാപിക്കുമ്പോൾ aയെ സംബന്ധിച്ചു '8 a ക്യൂബ് ഹരിക്കണം EBh ക്യൂബ്' വിഭജിക്കുമ്പോൾ എനിക്ക് ഇത് പി സ്ക്വയർ 24a സ്ക്വയർ ഹരിക്കണം 2B ഗുണിക്കണം EB h ക്യൂബ് ആയി ലഭിക്കുന്നു കൂടാതെ എക്സ്പ്രഷൻ ഈ രീതിയിൽ വീണ്ടും ഉൾക്കൊള്ളുന്നു 2 സ്ക്വയറിനെ 2 ബി കൊണ്ട് ഇബി എച്ച് ക്യൂബായി വിഭജിക്കുന്നു ഇരട്ട കാന്റിലിവർ ബീം മാതൃകയുടെ ഊർജ്ജ പ്രകാശന നിരക്ക് 12 ഹരിക്കണം E ഗുണിക്കണം a സ്ക്വയർ ഹരിക്കണം B സ്ക്വയർ ഗുണിക്കണം P സ്ക്വയർ ഹരിക്കണം h ക്യൂബ് എന്ന് ലഭിക്കും ഈ പദപ്രയോഗം ഉപയോഗിച്ച് നമ്മൾ എന്തുചെയ്യും നോക്കൂ ഫ്രാക്ചർ മെക്കാനിക്സ് വികസിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവർ ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി എന്ത് നിരീക്ഷണങ്ങൾ നേടാൻ ശ്രമിച്ചാലും ഗണിതശാസ്ത്ര വികസനം സ്ഥിരതയാർന്നതാണോയെന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിശോധിക്കാൻ അവർ ഒരു പരീക്ഷണത്തിൽ നോക്കാൻ ശ്രമിച്ചു ഒടിവിൽ വിള്ളൽ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്ഥിരമായ വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളും നമ്മൾ ചർച്ചചെയ്തു ഒടിവ് സ്ഥിരമായിരിക്കും ഇത് ഒരു വശമാണ് മറ്റൊരു വശം നിങ്ങൾക്ക് ഒരു വിള്ളൽ വളർച്ച തടയാൻ കഴിയുമോ അതായത് ഊർജ്ജ പ്രകാശന നിരക്ക് വ്യത്യസ്തമായിരിക്കണം ഊർജ്ജ പ്രകാശന നിരക്ക് എത്രയാണെന്ന് പരീക്ഷണാത്മകമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആദ്യകാല വികസനത്തിലെ ഒരു വെല്ലുവിളി പുതിയ പരീക്ഷണ രീതികൾ എങ്ങനെ വികസിപ്പിക്കാം എന്നതായിരുന്നു കൂടാതെ പുതിയ പരീക്ഷണ മാതൃകകളും അതിനാൽ ഈ പദപ്രയോഗം നോക്കിയതിന് ശേഷം ആളുകൾ ഉന്നയിച്ച ചോദ്യങ്ങളിലൊന്ന് സ്ഥിരമായ G ഉള്ള ഒരു മാതൃക രൂപകൽപ്പന ചെയ്യാൻ കഴിയുമോ ഈ പദപ്രയോഗങ്ങളുമായി കളിക്കാൻ കഴിയും അവയിൽ ചിലത് ട്വീക്ക് വലിച്ചു പിരിച്ച് ചെയ്ത് ഒരു മാതൃക സൃഷ്ടിക്കുക അങ്ങനെ വിള്ളൽ വളരുമ്പോൾ G സ്ഥിരമായി തുടരും ഫ്രാക്ചർ മെക്കാനിക്സിൽ വികസിപ്പിച്ച ചില ആശയങ്ങൾ പരിശോധിക്കാൻ ഇത് തികച്ചും ഉപയോഗപ്രദമാണ് സ്ഥിരമായ G മാതൃകയുടെ രൂപകൽപ്പന അതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് സ്ഥിരമായ G മാതൃകയുടെ രൂപകൽപ്പന ഈ പദപ്രയോഗത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത് വിള്ളലിന്റെ നീളത്തിന്റെ സ്ക്വയർ ആയി G വർദ്ധിക്കുന്നു G a സ്ക്വയറിന്റെ പ്രവർത്തനമാണ് മാതൃകയുടെ ജ്യാമിതീയ സവിശേഷതകളുമായി കളിക്കുന്നതിലൂടെ സ്ഥിരമായ G യുടെ ഒരു മാതൃക കൈവരിക്കാൻ കഴിയും നമുക്ക് മാറ്റാൻ കഴിയുന്ന ജ്യാമിതീയ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് കനം B എച്ച് എന്നിവ ഉപയോഗിച്ച് കളിക്കാം ഞാൻ കനം വ്യത്യാസപ്പെടുത്തുന്നുവെന്ന് കരുതുക എന്ത് സംഭവിക്കും മാതൃകയുടെ ദൈർഘ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ നമ്മൾ ഊന്നിപ്പറയുന്നു ഫ്രാക്ചർ മെക്കാനിക്സ് സമഗ്രമാണ് നേർത്ത മാതൃകകൾക്കായി ഇത് നിങ്ങൾക്ക് ചില ശുപാർശകൾ നൽകുന്നു കട്ടിയുള്ള മാതൃകകൾക്കായി ഇത് നിങ്ങൾക്ക് മറ്റൊരു കൂട്ടം ശുപാർശകൾ നൽകുന്നു അതിനാൽ കനം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വിള്ളലിന് സമീപമുള്ള സ്ട്രെസ് അവസ്ഥയെ വ്യത്യാസപ്പെടുത്തുന്നു അതിനാൽ അത് അഭികാമ്യമല്ല അതിനാൽ b h എന്നീ രണ്ട് പാരാമീറ്ററുകളിൽ നിങ്ങൾ കനം വ്യത്യാസപ്പെടുകയാണെങ്കിൽ സമ്മർദ്ദ നില തന്നെ ക്രാക്ക് ടിപ്പിൽ മാറുന്നു അതിനാൽ b മാറ്റുന്നത് അഭികാമ്യമല്ല മറുവശത്ത് നിങ്ങൾക്ക് ഉയരം വ്യത്യാസപ്പെടുത്താം ഈ രീതിയിൽ ഞങ്ങൾ ക്രാക്ക് ടിപ്പിലെ സ്ട്രെസ് ഫീൽഡിൽ മാറ്റം വരുത്തുകയില്ല അതാണ് നേട്ടം ഇത് എങ്ങനെ മാറ്റാമെന്നും നോക്കാം നമ്മൾ ചെയ്യേണ്ടത് പദപ്രയോഗം സ്ഥിരമായി തുടരുന്നതിന് അതായത് ജി സ്ഥിരമായി തുടരുന്നതിന് a യുടെ ⅔ തവണ hന് ആനുപാതികമായ രീതിയിൽ h വർദ്ധിപ്പിക്കുക അതിനാൽ ഞാൻ h വ്യത്യാസപ്പെടുത്തുന്നു എന്നിരുന്നാലും ഇത് ഒരു രേഖീയമല്ലാത്ത പദപ്രയോഗം പോലെ കാണപ്പെടുന്നു വാസ്തവത്തിൽ നിങ്ങൾ അളവുകളും പകരക്കാരും നോക്കുകയാണെങ്കിൽ അത് ഒരു നേർരേഖ പോലെയാണ് നിങ്ങൾക്ക് ഒരു വലിയ മാതൃക ലഭിച്ചുകഴിഞ്ഞാൽ മറ്റ് ചില പരിഗണനകളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ വീക്ഷണവും ഉണ്ടാകും അതിനാൽ ഇത് കാണിക്കുന്നത് എനിക്ക് സ്ഥിരം a യുടെ ⅔ തവണ ആനുപാതികമായ h എന്ന വേരിയബിളിലൂടെ എനിക്ക് G സ്ഥിരമാക്കാം ചുരുക്കത്തിൽ എച്ച് ക്യൂബ് a സ്ക്വയർ ഞാൻ സ്ഥിരമായി നിലനിർത്തും പരിമിതമായ വിള്ളൽ ദൈർഘ്യത്തിന് സ്ഥിരമായ G മാതൃക സാധ്യമാണ് ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ മാതൃക ഇതുപോലെ കാണിച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് അതിനാൽ എനിക്ക് ലോഡ് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരിടമുണ്ട് മാതൃക ഇതുപോലെയാണ് പ്രായോഗികമായി ഇത് ഒരു നേർരേഖയോട് വളരെ അടുത്താണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഉയരം ക്രാക്ക് ദൈർഘ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ് നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഒരേ പ്ലൈനിൽ തലം വിള്ളൽ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കാണുക വിള്ളൽ വ്യതിചലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല വിശകലനം ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ നേടിയാലും സ്ഥിരമായ G മാതൃക ഊർജ്ജ പ്രകാശന നിരക്ക് മനസിലാക്കുന്നതിൽ നമ്മൾ നടത്തിയ ഏതൊരു വികസനവും സാധുതയുള്ളതാണെന്ന് കാണിക്കുന്നു കാരണം ഈ മാതൃകയിൽ ഊർജ്ജ റിലീസ് നിരക്ക് സ്ഥിരമാണ് ഊർജ്ജ റിലീസ് നിരക്ക് സ്ഥിരമാണെന്ന് നമ്മൾ പരീക്ഷണാത്മകമായി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടെത്തും ഊർജ്ജ പ്രകാശന നിരക്കിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ യുക്തിസഹമാണ് ആളുകൾ അത്തരം മാതൃകകൾ ഉപയോഗിക്കുകയും ക്രാക്ക് അറസ്റ്റ് സാഹചര്യങ്ങൾ പോലും പര്യവേക്ഷണം ചെയ്യുകയും ചെയ്തു G മാറ്റങ്ങളെ ക്രാക്ക് ദൈർഘ്യത്തിന്റെ പ്രവർത്തനമായി ആളുകൾ കരുതി അതിനാൽ ഊർജ്ജ ലഭ്യത രണ്ട് പുതിയ വിള്ളൽ പ്രതലങ്ങളുടെ രൂപീകരണത്തേക്കാൾ കുറവാണെങ്കിൽ ക്രാക്ക് ക്രമേണ നിർത്തേണ്ടതാണ് അതിനാൽ ആളുകൾ ഇതിനെക്കുറിച്ച് മാറ്റങ്ങൾ വരുത്തി അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആദ്യകാല വികസനത്തിൽ പുതിയ മാതൃകകൾ രൂപകൽപ്പന ചെയ്യുന്നത് ഒരുപോലെ വെല്ലുവിളിയായിരുന്നു അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ വ്യതിചലിക്കാതിരിക്കാൻ വിള്ളൽ തടയുന്നതിന് എന്തുചെയ്യണം ആളുകൾ നിർദ്ദേശിച്ചു മാതൃകയിൽ ആവേശങ്ങൾ നൽകുക ഇവ സൈഡ് ഗ്രോവ്സ് എന്നറിയപ്പെടുന്നു നിങ്ങൾ ആനിമേഷൻ കാണുക നിങ്ങൾ കണ്ടെത്തും ഈ സാഹചര്യത്തിൽ ആ പ്ലൈനിൽ വിള്ളൽ തുടരുന്നു സൈഡ് വ്യൂ ഇതുപോലെയാണ് അതിനാൽ നിങ്ങൾ മാതൃകയുടെ കനം മറികടക്കുന്നു ഈ കേന്ദ്ര തലം ദുർബലമാണ് അതിനാൽ നിങ്ങൾ അത് മനപൂർവ്വം ചെയ്യുന്നു വാസ്തവത്തിൽ ഒടിവ് കടുപ്പം പരിശോധിക്കുന്നതിനുള്ള ഒരു മാതൃക നോക്കുമ്പോൾ നമ്മൾ ഈ ആശയം കടമെടുക്കും യഥാർത്ഥ പരീക്ഷണം നടത്താൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലൈനിൽ വീണ്ടും വിള്ളൽ നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഇത് ഒരു നേട്ടമായി എടുക്കും ഇത് ദുർബലപ്പെടുത്തുന്നതിനായി നമുക്ക് ഇഷ്ടമുള്ള തലം ചില ഫാഷനിലും നമ്മൾ നൽകും ഊർജ്ജ പ്രകാശന നിരക്കിന്റെ പ്രയോജനം കാണുന്നതിന് നമ്മൾ മറ്റൊരു ഉദാഹരണം കൂടി എടുക്കുമെന്ന് നിങ്ങൾക്കറിയാം ഈ മാതൃകയുടെ ഒരു രേഖാചിത്രം നിങ്ങൾ നിർമ്മിക്കുന്നു ഊർജ്ജ പ്രകാശന നിരക്ക് സംബന്ധിച്ച ചർച്ചയിൽ നമ്മൾ ശക്തിയും സ്ഥാനചലനവും പരിശോധിച്ചു ഇത് സാമാന്യവൽക്കരിച്ച ഒരു ശക്തിയും അനുബന്ധ സാമാന്യവൽക്കരിച്ച സ്ഥാനചലനവും ആകാം ഇത് ഒരുപോലെ ബാധകമാണ് നോക്കൂ മോഡ് 1 ലോഡിംഗിന്റെ ഊർജ്ജ പ്രകാശന നിരക്ക് മാത്രമാണ് നമ്മൾ നോക്കിയത് മോഡ് 3 പ്രശ്നം അല്ലെങ്കിൽ മോഡ് 2 പ്രശ്നം പോലും ശരിയായി പരിഹരിക്കുന്നതിന് സമാനമായ ഒരു സമീപനം വിപുലീകരിക്കാം ഇപ്പോൾ ഒരു കാന്റിലിവർ ബീം മാതൃകയുടെ ഒരു പ്രശ്നം നമ്മൾ ഏറ്റെടുക്കുന്നു ഇതൊരു ഇരട്ട കാന്റിലിവറാണ് പക്ഷേ ലോഡിംഗ് വ്യത്യസ്തമാണ് ഈ ഉപരിതലത്തിലും ഈ ഉപരിതലത്തിലും നിങ്ങൾ ഒരു ബെൻഡിങ് മോമെന്റ്റ് പ്രയോഗിക്കുന്നു ഇത് കീറിക്കളയുന്ന പ്രവർത്തനം നൽകുന്നു ഇത് കീറിക്കളയുന്ന പ്രവർത്തനം നൽകുന്നു നിങ്ങൾക്ക് കീറിക്കളയുന്ന പ്രവർത്തനം ലഭിക്കുന്ന നിമിഷം ഇതാണ് മോഡ് 3 ന്റെ പ്രശ്നം കൂടാതെ മെലിഞ്ഞ അംഗങ്ങൾക്കായി ഞങ്ങൾ ഇതിനകം തന്നെ പരിശോധിച്ചു ഊർജ്ജം എങ്ങനെ കണക്കാക്കാം അതിനാൽ മുകളിലെ ഭാഗം വളയുന്നതിന് വിധേയമായ ഒരു ബീം ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു താഴത്തെ ഭാഗം വളയുന്നതിന് വിധേയമായ മറ്റൊരു ബീം ആണ് കൂടാതെ നിങ്ങൾക്ക് ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ഇന്റഗ്രൽ 0 L M സ്ക്വയർ ഹരിക്കണം 2EI ഗുണിക്കണം dx എന്ന് സ്ട്രെയിൻ എനർജി എഴുതാൻ കഴിയും എല്ലാം ഒരു ഘടകം 2 കൊണ്ട് ഗുണിച്ചാൽ കാരണം നമ്മൾ മുകളിലുള്ള ബീം താഴത്തെ ബീം എന്നിവ നോക്കുന്നു നിങ്ങൾ ഇവിടെ എന്താണ് എടുക്കുന്നത് വിള്ളലിന്റെ നീളം 'a' അതിനാൽ ബീം ദൈർഘ്യം 'a' ആയി എടുക്കുന്നു dx എന്നത് da അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇന്റഗ്രൽ നിങ്ങൾ അതിനെ 2 ആയി ഇന്റഗ്രൽ 0 a M സ്ക്വയർ ഹരിക്കണം 2EI ഗുണിക്കണം da ആക്കി മാറ്റുന്നു കൂടാതെ നിങ്ങൾ 'I'യുടെ പദപ്രയോഗം ശ്രദ്ധാപൂർവ്വം എഴുതുകയും വേണം നോക്കൂ വളയുന്നതിന്റെ തലം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എഴുതുക അത് എങ്ങനെ വളയുന്നു h b അളവുകൾ എങ്ങനെ കാണിക്കുന്നുവെന്ന് നോക്കുക അതിനാൽ നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 'I' hb ക്യൂബ് ഹരിക്കണം 12 ആകും അതിൽ പകരം വയ്ക്കുക വളരെ ലളിതമായ ഒരു വ്യായാമം നിങ്ങൾക്ക് 12 M സ്ക്വയർ a ഹരിക്കണം Eh B ക്യൂബ് എന്ന അന്തിമ പദപ്രയോഗം ലഭിക്കും അതിനാൽ മോഡ് 3 സാഹചര്യമായ ഈ പ്രശ്നത്തിന് 'G' 1 ഹരിക്കണം B dU ഹരിക്കണം da ആയി നൽകുന്നു അത് നിങ്ങൾക്ക് 12 M സ്ക്വയർ ഹരിക്കണം EhB ന്റെ 4 തവണ എന്ന് ലഭിക്കുന്നു നോക്കൂ ഞാൻ 2 പ്രശ്നങ്ങൾ എടുത്തിട്ടുണ്ട് പാലിക്കൽ സമീപനത്തിലൂടെ നമ്മൾ പരിഹരിച്ച ആദ്യ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നമ്മൾ സ്ട്രെയിൻ എനർജി വിലയിരുത്തി G എന്ന പദപ്രയോഗം നേടി കൂടാതെ നിങ്ങളുടെ അസൈൻമെന്റ് ഷീറ്റിൽ നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് അവിടെ സംഭരിച്ച ഊർജ്ജം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ പാലിക്കൽ കണ്ടെത്തുന്നതിനോ ഊർജ്ജ റിലീസ് നിരക്ക് വിലയിരുത്തുന്നതിനോ മെറ്റീരിയലുകളുടെ ശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വിപുലീകരിക്കാൻ കഴിയും അതിനാൽ ഈ ക്ലാസ്സിൽ ഊർജ്ജ പ്രകാശന നിരക്കിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ നമ്മൾ പൊതുവൽക്കരിച്ചു ചില ഫാഷനിലെ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഊർജ്ജ പ്രകാശന നിരക്ക് പ്രകടിപ്പിച്ചു പിന്നെ വിള്ളൽ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പാലിക്കൽ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണെന്ന് ഇർവിൻ ചൂണ്ടിക്കാട്ടി അതിനാൽ പാലനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊർജ്ജ പ്രകാശന നിരക്കും ലഭിച്ചു മനസിലാക്കാനുള്ള നമ്മുടെ അറിവ് ഉറപ്പിക്കാൻ നമ്മൾ രണ്ട് ഉദാഹരണ പ്രശ്നങ്ങൾ എടുക്കുകയും ഊർജ്ജ പ്രകാശന നിരക്ക് വിലയിരുത്തി ഫ്രാക്ചർ മെക്കാനിക്സിൽ വികസിപ്പിച്ചെടുത്ത ആശയങ്ങൾ പരിശോധിക്കുന്നതിനുള്ള രസകരമായ മാതൃകകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു സൂചനയാണ് ഇതിന്റെ ഒരു ഉദാഹരണം അതിനാൽ സ്ഥിരമായ ജി മാതൃകയുടെ രസകരമായ കേസ് നമ്മൾ കണ്ടു